എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ എൻപിടിഇഎൽ മൂക്ക് കോഴ്സിലേക്ക് സ്വാഗതം ഇത് ആദ്യ ആഴ്ചയാണ് ഈ കോഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങളുടെ ആദ്യ സെറ്റിന്റെ ആദ്യ മൊഡ്യൂളാണിത് ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നിങ്ങളെ കോഴ്സിലേക്ക് പരിചയപ്പെടുത്താനും കോഴ്സിൽ നിന്നുള്ള നിങ്ങളുടെ നേട്ടം എങ്ങനെ പരമാവധി വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില നുറുങ്ങുകൾ നൽകാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു അടിസ്ഥാന ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുഃ പഠനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പഠനത്തെ എങ്ങനെ നിർവചിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പഠനം നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഈ കോഴ്സിൽ നിന്ന് പഠിക്കാനാണ് നിങ്ങൾ ഇവിടെയുള്ളത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം പഠനം നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള പൊതുവായ ആശയങ്ങളോ തെറ്റിദ്ധാരണകളോ എന്തൊക്കെയാണ് ആദ്യം അത് നോക്കാം കൂടാതെ നിങ്ങൾക്കും ഇത് അർത്ഥമാക്കുന്നുണ്ടോ പഠിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ നിറയ്ക്കുക എന്നതാണോ ഏതൊക്കെ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിനർത്ഥം നിങ്ങൾ ആ പുസ്തകങ്ങൾ നിറയ്ക്കുകയാണോ അതോ മനപാഠമാക്കിയ ആശയങ്ങളുടെ ബുദ്ധിശൂന്യമായ പുനർനിർമ്മാണമാണോ അതിനാൽ അവിടെ എന്താണുള്ളതെന്ന് മനസിലാക്കാൻ നിങ്ങൾ മടിക്കരുത് എന്നാൽ നിങ്ങൾ മനപാഠമാക്കുകയും പിന്നീട് അത് പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു ബിരുദത്തിൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെയോ രൂപത്തിൽ എന്തെങ്കിലും കടലാസിൽ ലഭിക്കുക എന്നതാണോ അതോ ശേഖരിച്ച സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളും മെഡലുകളും നിങ്ങൾ ആരെയെങ്കിലും കാണിക്കുക എന്നതാണോ അർത്ഥമാക്കുന്നത് ഇത് കേവലം അറിവിന്റെ വർദ്ധനവാണോ പഠിക്കുക എന്നതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുകയാണോ അത് വെറുതെയാണോ അതോ മനപാഠമാക്കാനും പുനർനിർമ്മിക്കാനുമുള്ള നിങ്ങളുടെ കഴിവാണോ അതോ നിങ്ങൾ വസ്തുതകൾ ശേഖരിക്കുകയും തുടർന്ന് ഭാവിയിലെ ഉപയോഗത്തിനായി അവ സംഭരിക്കുകയും ചെയ്യുന്നു എന്നാണോ അർത്ഥമാക്കുന്നത് പഠനം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ചില ആളുകൾക്ക് പഠനം അവർ പറയുന്നു ഇത് അർത്ഥത്തിനായുള്ള അന്വേഷണമാണ് ഉദ്ദേശ്യത്തിനായുള്ള ഒരു തിരയൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് അർത്ഥമാക്കുന്നത് യാഥാർത്ഥ്യം മനസിലാക്കാനും അത് എങ്ങനെ ശരിയായി വ്യാഖ്യാനിക്കണമെന്ന് അറിയാനുമുള്ള നിങ്ങളുടെ കഴിവാണ് ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഏത് നിർവചനങ്ങളും അവയിൽ ഭൂരിഭാഗവും വളരെ പരമ്പരാഗതമാണ് നിങ്ങൾ പഠനത്തെ നോക്കുന്ന രീതിയും പഠനം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുഃ എന്നെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പഠനം യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുമായുള്ള മനുഷ്യ ഇടപെടലാണ് അത് പെരുമാറ്റത്തിൽ സ്ഥിരമായ മാറ്റത്തിന് കാരണമാകുന്നു പെരുമാറ്റത്തിൽ സ്ഥിരമായ മാറ്റത്തിന് കാരണമാകുന്ന പരിസ്ഥിതിയുമായുള്ള മനുഷ്യ ഇടപെടൽ ഇതിനർത്ഥം ചുറ്റുപാടുമായി ഇടപാട് നടത്താനുള്ള നിങ്ങളുടെ കഴിവ് എന്നാണ് നിങ്ങളുടെ ഇന്ദ്രിയബോധം അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ ലഭ്യമായതെന്തും ഉപയോഗിച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കുക എന്നാൽ പഠനം അവിടെ അവസാനിക്കുന്നില്ല മറിച്ച് അത് നിങ്ങളെ ബാധിക്കുകയും നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു താൽക്കാലികമായി മാത്രമല്ല നിങ്ങളുടെ പെരുമാറ്റത്തിൽ സ്ഥിരമായ മാറ്റം വരുത്തുകയും അത് പഠനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായിരിക്കണം ഇപ്പോൾ അതാണ് പഠനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെങ്കിൽ ഈ കോഴ്സ് സോഫ്റ്റ് സ്കിൽസിനെയും നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെയും കുറിച്ചാണ് ഈ കോഴ്സിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതെന്തും മനപാഠമാക്കുന്നത് സഹായിക്കില്ലെന്ന് നിങ്ങൾ കരുതുന്നില്ലേ ഇത് നിങ്ങളുടെ പെരുമാറ്റമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്നതെന്തും പരിഷ്ക്കരിക്കേണ്ടതുണ്ട് പഠനം എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഇപ്പോൾ പഠനത്തിന്റെ ഈ വശം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അർത്ഥമാക്കുകയും ഒരു നിശ്ചിത പ്രത്യാഘാതങ്ങൾ നൽകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് എല്ലാ പഠനവും പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയല്ല വാസ്തവത്തിൽ പുസ്തകങ്ങൾക്കിടയിൽ എന്താണ് വരികൾക്കിടയിൽ എന്താണ് എന്താണ് സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് കൂടുതൽ പറയുന്ന ഉപപാഠം ഏതാണ് അക്ഷരാർത്ഥത്തിൽ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതല്ല രസകരമെന്നു പറയട്ടെ മിക്ക പഠനവും ക്ലാസ് മുറികൾക്ക് പുറത്താണ് നടക്കുന്നത് പഠനത്തിന്റെ ഭൂരിഭാഗവും ക്ലാസ് മുറികൾക്ക് പുറത്താണ് നടക്കുന്നത് ഇത് ക്ലാസ് മുറിക്കുള്ളിലല്ല ക്ലാസ് റൂമിനു പുറത്താണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ ഭൂരിഭാഗവും പരിസ്ഥിതിയുമായുള്ള നിങ്ങളുടെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കുന്നു അന്തരീക്ഷം ചിലപ്പോൾ ക്ലാസ് മുറിയായിരിക്കാം ചിലപ്പോൾ അത് വെറും സുഹൃത്തുക്കളായിരിക്കാം അതായത് വിവിധ രൂപത്തിലുള്ള ആളുകൾ അത് നിങ്ങളുടെ ഗുരുക്കന്മാരായിരിക്കാം നിങ്ങളാകാം ശത്രുക്കൾ പോലും അത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം അയൽപക്കത്തുള്ള ആരെങ്കിലും ആകാം അയൽക്കാരിൽ അത് ഒരു മതനേതാവായിരിക്കാം രൂപത്തിൽ ആർക്കും ആകാം നിങ്ങൾക്ക് സംവദിക്കാനും പഠിക്കാനും കഴിയുന്ന മാനവ വിഭവശേഷി അത് പുസ്തകങ്ങളായിരിക്കാം വളരെ രസകരവും സ്വാധീനമുള്ളതുമായ സിനിമകളായിരിക്കാം അത് കേവലം പ്രകൃതിയായിരിക്കാം പ്രകൃതിയെ നോക്കുന്നതിലൂടെ വളരെയധികം നേട്ടമുണ്ടാക്കിയ നിരവധി കവികൾ തത്ത്വചിന്തകർ എഴുത്തുകാർ നേതാക്കൾ എന്നിവരുണ്ട് ഹെർമൻ ഹെസ്സെ സിദ്ധാർത്ഥയെ വായിച്ചിട്ടുണ്ടെങ്കിൽ വാസുദേവൻ എന്നൊരു കഥാപാത്രമുണ്ട് നദിയുടെ ഒരു തീരത്ത് നിന്ന് മറ്റേ തീരത്തേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഫെറിമാനായി പ്രവർത്തിക്കുന്നയാൾ അദ്ദേഹം പറയുന്നു താൻ നദിയിൽ നിന്ന് ഒരുപാട് പഠിക്കുന്നു തന്റെ വിദ്യാഭ്യാസമെല്ലാം നദിയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും അതിനാൽ പഠിക്കുക എന്നത് പുസ്തകങ്ങളിൽ നിന്നുള്ളതല്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കുന്നതിൽ നിന്നല്ല പരിസ്ഥിതിയോട് ഇടപഴകുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാം ക്ലാസ് റൂം അവയിലൊന്നായിരിക്കാം പക്ഷേ അത് ക്ലാസ് റൂം അധ്യാപനത്തിനപ്പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ ഒരാൾ പഠിക്കുന്ന ഏത് രീതിയിലും അത് പെരുമാറ്റ പരിഷ്ക്കരണത്തിന് കാരണമാകുന്നില്ലെങ്കിൽ അതിന് ഒട്ടും പ്രാസക്തിയില്ല ഇത് മറ്റൊരു രസകരമായ സൂചനയാണ് നിങ്ങൾ പഠിക്കുന്നതെന്തും നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റത്തിനും കാരണമാകുന്നുണ്ടോ എന്നതിന് ഒരു വികലാംഗനായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അവശനായ വ്യക്തിക്ക് വിദ്യാസമ്പന്നരായ യുവാക്കൾ ഇടം നൽകാത്തതിന് ആളുകൾ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം സീറ്റ് പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യമുള്ള ആളുകൾക്കും വേണ്ടിയുള്ളതാണെന്ന് എഴുതിയിട്ടും അവർ സ്ഥലം നൽകുന്നില്ല മുതിർന്നവർക്ക് ഇടം നൽകുന്നില്ല അപ്പോൾ ആളുകൾ അവരോട് ചോദിക്കുംഃ നിങ്ങൾ വിദ്യാസമ്പന്നനല്ലേ നിങ്ങൾ വിദ്യാസമ്പന്നരായി കാണപ്പെടുന്നു പക്ഷേ അത് നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും കാണിക്കുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ പാഠങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് ഇത് കാണിക്കുന്നു നിങ്ങളുടെ പെരുമാറ്റത്തിൻറെ രൂപത്തിൽ ബാധിക്കപ്പെടുന്നതെന്തും നിങ്ങൾ പഠിച്ച കാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുവെങ്കിൽ ഈ കോഴ്സിന് എന്തുചെയ്യാൻ കഴിയും ഏറ്റവും മികച്ച രീതിയിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് പഠനത്തിന് വളരെ അനുയോജ്യമായ അന്തരീക്ഷം നൽകും എന്നാൽ ഇത് നിങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകുന്നുണ്ടെങ്കിലും ചില ഇഫുകളും ബട്ടുകളും ഉണ്ട് പക്ഷേ ഒരിക്കൽക്കൂടി അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ ഈ കോഴ്സിന് നിങ്ങളെ എന്തുചെയ്യാൻ കഴിയും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയേക്കാം നിങ്ങൾ ചെയ്തതും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുമായ ഒരൊറ്റ കോഴ്സായിരിക്കാം അത് അത് നിങ്ങളുടെ ചിന്തയിൽ വിപ്ലവം സൃഷ്ടിച്ചേക്കാം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റിയേക്കാം അതിന് നിങ്ങളുടെ കരിയർ വികസിപ്പിക്കാനും നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെ സമ്പന്നമാക്കാനും കഴിയും അത് നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇപ്പോൾ അതിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും പക്ഷേ അത് എന്താണ് നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ മാത്രം കോഴ്സിന് നിങ്ങളെ മാറ്റാൻ കഴിയും ആ മാറ്റം നിങ്ങളിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഗതിക്ക് നിങ്ങളെ മാറ്റാൻ കഴിയും കുതിരയെ വെള്ളത്തിലേക്ക് നയിക്കാമെങ്കിലും കുടിപ്പിക്കാനാവില്ല എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കാം ഒരു പരിശീലകനെന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിന് പഠനത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം നൽകാൻ കഴിയും എന്നാൽ നിങ്ങൾ പഠിതാവ് എന്ന നിലയിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ മാറ്റം വരുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ എനിക്ക് ഒരു വഴിയുമില്ല നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങൾ മാറ്റം ആഗ്രഹിക്കണം ഇപ്പോൾ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കേണ്ടതുണ്ട് മാറ്റം കാരണം നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളുടെ വിശ്വാസം മാറ്റാൻ നിങ്ങൾ സന്നദ്ധരായിരിക്കണം നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടായിരിക്കണം കോഴ്സ് കോഴ്സിന് നിങ്ങളെ മാറ്റാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് പോസിറ്റീവ് ആക്കാൻ കോഴ്സ് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയും പരിശീലകനിൽ വിശ്വാസം പുലർത്തുകയും ചെയ്താൽ നിങ്ങൾ പരിഷ്ക്കരിക്കാൻ തുടങ്ങും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മൊത്തത്തിൽ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ നീക്കാൻ തുടങ്ങും പെരുമാറ്റം നടത്തുകയും ധാരാളം അറിവില്ലായ്മയും പുനർവിദ്യാഭ്യാസവും നടത്തുകയും ചെയ്യുക നിങ്ങളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ നയിക്കുന്ന നല്ല വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കും ഒടുവിൽ താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ആരോഗ്യകരമായ ശീലങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങും നിങ്ങളുടെ സ്വഭാവം അത് നിങ്ങളുടെ വിധിയും നിർണ്ണയിക്കും അതിനാൽ ഇതെല്ലാം മാറ്റം ആഗ്രഹിച്ച് നിങ്ങൾ ആരംഭിക്കുന്ന ഒരു ഒഴുകുന്ന പ്രക്രിയയാണ് നിങ്ങൾ ആരംഭിക്കുക നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് കോഴ്സിൽ വിശ്വാസമുണ്ട് തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ പരിഷ്ക്കരിക്കപ്പെടുകയും തുടർന്ന് നല്ല വാക്കുകൾ ഉപയോഗിക്കുകയും തുടർനടപടികൾ സ്വീകരിക്കുകയും ഒടുവിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ശീലങ്ങൾ വികസിപ്പിക്കാൻ കഴിയും അത് നിങ്ങളുടെ സ്വഭാവത്തെയും നിർണ്ണയിക്കും ഒരു നല്ല വിധിയിലേക്ക് നയിക്കുന്നു ഇപ്പോൾ ഈ കോഴ്സിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുന്നതിനുള്ള ചില ദ്രുത ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് നൽകും കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ കോഴ്സ് നിങ്ങൾ ഇപ്പോൾ വായിച്ച മറ്റേതൊരു കോഴ്സും പോലെയല്ല തുടർന്ന് പുനർനിർമ്മിക്കുക ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം നിങ്ങൾക്ക് സാധാരണ മോഡിൽ സ്റ്റാൻഡേർഡ് മോഡിൽ പോകാമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ശുപാർശ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾ പൊതുവെ അരാജകത്വ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും പൊരുത്തമില്ലാത്ത ആളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്സി മോഡും നിർദ്ദേശിക്കും ഇപ്പോൾ സാധാരണ മോഡിൽ എൻ എൽ സൈറ്റിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോകൾ ഡൌൺലോഡ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു നിങ്ങളുടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് മൊബൈൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ അവ സംഭരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ പോകുകയാണെങ്കിൽ ഒരു പകർപ്പ് ഓഫീസിൽ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ താഴത്തെ നിലയിലാണെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട് നിങ്ങൾ അവിടെ വെക്കുന്നു മുകളിലത്തെ നിലയിൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട് നിങ്ങൾ അത് അവിടെ പകർത്തുന്നു നിങ്ങൾ എവിടെയായിരുന്നാലും പിന്നെ നിങ്ങൾക്ക് വായിക്കാൻ തോന്നുമ്പോഴെല്ലാം അത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ അവ്യക്തമായ തരക്കാരനാണെങ്കിൽ അത് ഡൌൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ കുറഞ്ഞത് ഭാഗങ്ങളായി ഡൌൺലോഡ് ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു 2 3 വീഡിയോകൾ അല്ലെങ്കിൽ കുറഞ്ഞത് ക്വിസ് ആരംഭിക്കുന്നതിന് തലേദിവസം കുറഞ്ഞത് അത് ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് വേഗത്തിൽ അതിലൂടെ കടന്നുപോകുക അങ്ങനെ നിങ്ങൾ ആഴ്ചയിലെ പാഠം പൂർത്തിയാക്കും ഒരാഴ്ചത്തെ പാഠം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവയ്ക്കരുത് അപ്പോൾ അത് കുമിഞ്ഞുകൂടുകയും പിന്നീട് പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവേശം നഷ്ടപ്പെടുകയും ചെയ്യും അതിനാൽ അതിന് ശ്രമിക്കരുത് രണ്ടാം ഘട്ടത്തിൽ സാധാരണ ഒരാൾക്ക് കോഴ്സ് പഠിക്കാൻ ഓരോ ദിവസവും ഒരു മണിക്കൂർ ഷെഡ്യൂൾ ചെയ്യാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഓരോ ദിവസവും നിങ്ങൾ വീഡിയോ ഡൌൺലോഡ് ചെയ്യുമ്പോൾ അത് ഏകദേശം 25 മിനിറ്റാണ് അത് 30 വരെ പോകില്ല തുടർന്ന് നിങ്ങൾ അത് കാണുക തുടർന്ന് നിങ്ങൾ അത് കാണുമ്പോൾ ആ നിമിഷം നിങ്ങൾ ആ വീഡിയോ കാണുന്നതിന് മാത്രം സമർപ്പിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അത് അതിരാവിലെ 6 മുതൽ 7 വരെയും 8 മുതൽ 9 വരെയും അല്ലെങ്കിൽ വൈകുന്നേരം 4 വരെയും ആകാം ഈ ഒരു മണിക്കൂർ ഞാൻ ഈ വീഡിയോയ്ക്കായി നീക്കിവയ്ക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ കഴിയുമെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ടിവി ശബ്ദമോ കോളിംഗ് ബെല്ലോ ഫോൺ കോളുകളോ നിങ്ങളെ ബാധിക്കാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുക പോലും നിങ്ങൾക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് പൂർണ്ണമായും ഫോക്കസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നു വീഡിയോയിൽ അത് സഹായിക്കും ഇപ്പോൾ അത് സാധ്യമാണോ എന്ന് ശ്രമിക്കുക നിങ്ങൾ വീഡിയോകൾ കാണുമ്പോൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും കുറിപ്പുകൾ എടുക്കുന്നതിന് ഒരു നോട്ട്ബുക്ക് സൂക്ഷിക്കുകയും ചെയ്യുക എനിക്ക് വീഡിയോ കാണാനും പിന്നെ എപ്പോൾ വേണമെങ്കിലും തിരികെ പോകാനും കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഒരു നോട്ട്ബുക്ക് സൂക്ഷിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ചില വാക്കുകൾ നിർദ്ദിഷ്ട ആശയങ്ങൾ എന്നിവ പോലും അവ ഓർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾ അത് കടലാസിൽ വെക്കുമ്പോൾ നിങ്ങൾ അത് യഥാർത്ഥത്തിൽ ഓർക്കുന്ന ഒരു പ്രധാന നിയമമാണിത് പക്ഷേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ഓർക്കില്ല നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കാണണം ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക അതിനാൽ നിങ്ങൾ അത് കാണുമ്പോൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുക തുടർന്ന് കുറിപ്പുകൾ എടുക്കാൻ ഒരു നോട്ട്ബുക്ക് സൂക്ഷിക്കുക ഉറങ്ങുന്നതിനുമുമ്പ് അവരെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് സമയത്തും ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളോട് ചർച്ച ചെയ്തതെല്ലാം വേഗത്തിൽ ഓർമ്മിക്കുക തുടർന്ന് അടുത്ത തവണ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്ക് പോയിന്റുകളും ആശയങ്ങളും കൈമാറാൻ കഴിയുമോ എന്ന് നോക്കുക നിങ്ങൾക്ക് ആ വ്യക്തിയുമായി ചർച്ച ചെയ്യാമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയോട് പങ്കിടുന്നു സാധ്യമെങ്കിൽ നിങ്ങൾക്ക് ഒരു പങ്കാളി വായന പങ്കാളി നിങ്ങളോടൊപ്പം കോഴ്സിൽ ചേർന്ന ഒരാളെപ്പോലും രൂപീകരിക്കാം നിങ്ങൾക്ക് ഒരു കൂട്ടപഠനം പോലും നടത്താം എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രധാനമാണ് തുടർന്ന് നിങ്ങൾ ഉറക്കെ ചിന്തിക്കുകയോ ആരുമായും ചർച്ച ചെയ്യുകയോ ചെയ്താൽ ആശയം വളരെ വ്യക്തമാകും ഇപ്പോൾ മറുവശത്ത് നിങ്ങൾ അവ്യക്തമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന തരത്തിലുള്ള ആളാണെങ്കിൽ പിന്നെ നിങ്ങൾ ചിട്ടയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ നിർദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സാധ്യമാകുമ്പോഴെല്ലാം വീഡിയോകൾ കാണാൻ കഴിയും ഒരു പ്രത്യേക മണിക്കൂർ ആസൂത്രണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അതും കുഴപ്പമില്ല നിങ്ങളുടെ കിടക്കയിൽ നിങ്ങൾക്ക് കിടന്ന് നന്നായി വായിക്കണമെങ്കിൽ ബസ്സിനുള്ളിൽ അല്ലെങ്കിൽ വിശ്രമമുറിയിൽ പോലും വിശ്രമമുറിയിൽ കുളിക്കുമ്പോഴോ സ്വയം ഉന്മേഷം പ്രാപിക്കുമ്പോഴോ തങ്ങൾക്ക് ആശയങ്ങൾ ലഭിച്ചുവെന്ന് മഹാനായ നോവലിസ്റ്റുകൾ ചിലപ്പോൾ പറയുന്നു അതിനാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് ചെയ്യുക എന്നാൽ നിങ്ങൾ സുഖപ്രദമായ എവിടെയായിരുന്നാലും നിങ്ങൾ ചെയ്യുന്നതെന്തും ഏത് സമയത്തും നിങ്ങൾ അവ്യക്തമായ തരത്തിലുള്ള ആളാണെങ്കിൽപ്പോലും നിങ്ങൾക്ക് അത് ലഭിക്കും അതിനാൽ സമയം പ്രയോജനപ്പെടുത്തുക പ്രതിവാര ക്വിസിന് മുമ്പ് പാഠങ്ങൾ പൂർത്തിയാക്കുക ചില പോയിന്റുകൾ രേഖപ്പെടുത്തുക ഇപ്പോൾ അടുത്ത ഘട്ടം നിങ്ങൾ സാധാരണ തരത്തിലുള്ളവരോ അവ്യക്തമായ തരത്തിലുള്ളവരോ ആകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ മുണ്ടെങ്കിൽ ചർച്ചാ ഫോറത്തിൽ ചേരാൻ ഞാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ടിഎകളുണ്ട് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ടിഎകളോട് ചോദിക്കാം അത് പരിഹരിക്കപ്പെടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ശേഖരിക്കാനും ഞങ്ങൾ ശ്രമിക്കും തുടർന്ന് ഈ ചോദ്യോത്തര ഫോറം സൃഷ്ടിക്കാൻ ശ്രമിക്കുക പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തുടർന്ന് നമ്മൾ വളരെ വേഗത്തിൽ ചില പൊതുവായ ഉത്തരങ്ങൾ നൽകും പക്ഷേ ഫോറങ്ങൾ തികച്ചും പുറത്തുപോകാൻ സാധ്യതയുണ്ട് ആ സ്ഥലത്താണ് നാം സംശയങ്ങൾ ചോദിക്കുകയും തുടർന്ന് ചർച്ച ചെയ്യുകയും തുടർന്ന് ചർച്ച നടത്തുകയും ചെയ്യുക എന്നിട്ട് ഞങ്ങളുടെ ചില ഉത്തരങ്ങളെ വെല്ലുവിളിക്കുക പോലും ചെയ്യുക അത് നിങ്ങൾ പഠിക്കുന്ന ഒരു മാർഗമാണ് നിങ്ങൾ അവ്യക്തമായ തരത്തിലുള്ള ആളാണോ അതോ സ്റ്റാൻഡേർഡ് തരം ജെ ആണെങ്കിലും അത് ഒരു പോയിന്റായി സൂക്ഷിക്കുക ഫോറങ്ങളിൽ പങ്കെടുക്കുകയും തുടർന്ന് നിങ്ങളുടെ അറിവ് കൂടുതൽ സമ്പന്നമാക്കുകയും ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഇത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണോ വേണ്ടയോ എന്ന് മുന്നോട്ട് പോകുക നിങ്ങൾ ഈ കോഴ്സ് വിജയകരമായി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ക്വിസുകളിലോ അസൈൻമെന്റുകളിലോ പങ്കെടുക്കരുതെന്ന് കരുതരുത് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എല്ലാ ക്വിസ് അസൈൻമെന്റുകളും നൽകുന്ന അവസാന പരീക്ഷയും നിങ്ങൾ ഹാജരാകണം നിങ്ങളുടെ പഠന പുരോഗതി വിലയിരുത്താൻ ഇത് നിങ്ങളെ സഹായിക്കും എന്നതാണ് കാരണം ശ്രമിക്കാതെ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതിനാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ താൽപ്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഇല്ല പക്ഷേ മറുവശത്ത് സർട്ടിഫിക്കറ്റ് വളരെ സാധുതയുള്ളതായിരിക്കും പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനി പ്രോഗ്രാമുകൾക്ക് പോകുകയും തുടർന്ന് നിങ്ങൾ ഒരു മികച്ച ജോലിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലിയോ തേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാൽ ഇത് ഐഐടി കാൺപൂരിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും തുടർന്ന് നിങ്ങൾ ഒരു കോഴ്സ് ചെയ്തു അതിനാൽ അത് നിങ്ങളുടെ C V ന് ചില സാധുവായ വെയിറ്റേജ് നൽകാൻ പോകുന്നു ഏതുവിധേനയും എല്ലാ ക്വിസുകളും പരീക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു അത് നഷ്ടപ്പെടുത്തരുത് ഇപ്പോൾ പഠനം പരീക്ഷണാത്മകമായിരിക്കണം എന്നതാണ് മറ്റൊരു കാര്യം ഇതിനർത്ഥം ഇത് വെറുതെ ഉത്തരങ്ങൾ ശേഖരിക്കുക എന്നതല്ല എന്നിട്ട് ഞങ്ങൾ നൽകുന്ന ശൂന്യസ്ഥാനങ്ങൾ നികത്താൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം മനസ്സിലാക്കുക ഫോറങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശരിക്കും പെരുമാറ്റ മാറ്റം വേണമെങ്കിൽ അത് പരീക്ഷണാത്മകമാക്കുക നിങ്ങൾ അത് അനുഭവിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു തുടർന്ന് നിങ്ങളുടെ സഹജാവബോധം ഉപയോഗിച്ച് നിങ്ങളുടെ വികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് പ്രതികരിക്കുന്നു ആരോടും ചോദിക്കരുത് ആരോടും ചർച്ച ചെയ്യരുത് എന്നാൽ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ കരുതുന്നതിനെ ആശ്രയിക്കുക ഇപ്പോൾ ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ചർച്ചകൾ നടത്താം ആശയപരമായ വ്യക്തതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോറങ്ങളിൽ പോലും നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ ക്വിസുകൾക്ക് ഉത്തരം നൽകുമ്പോൾ കോഴ്സിൽ നിന്ന് നേടിയ നിങ്ങളുടെ സ്വന്തം ഉൾക്കാഴ്ചകളെ ആശ്രയിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഓർക്കുക നിങ്ങൾ നേടിയ ഉൾക്കാഴ്ചകളാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സോഫ്റ്റ് സ്കിൽസ് നൽകാൻ പോകുന്നത് ഇപ്പോൾ മൂല്യനിർണ്ണയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ പഠന പുരോഗതി ഞങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ പുരോഗതിയും നിങ്ങൾ വിലയിരുത്തിയേക്കാം അതിനാൽ ഓരോ ദിവസവും ഓരോ പാഠവും പഠിച്ചതിനുശേഷം നിങ്ങൾ സൂചിപ്പിച്ച പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുമെന്ന് ഉറപ്പാക്കുക സോഫ്റ്റ് സ്കിൽസ് വികസിപ്പിക്കുന്നതിന് നിർദ്ദേശിച്ച പ്രവർത്തനം പരിശീലിക്കുക ഓരോ ആഴ്ചയും നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ഓരോ ആഴ്ചയും അതിന്റെ അവസാനത്തിൽ നിങ്ങൾ ഉറപ്പാക്കണം ശരി ഈ പെരുമാറ്റം ഞാൻ പരിഷ്ക്കരിച്ചുവെന്ന് കോഴ്സിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണിത് ഞാൻ ഒരു സത്യസന്ധമായ ശ്രമം നടത്തി എനിക്ക് അത് മാറ്റാൻ കഴിഞ്ഞു അതിനാൽ സ്വയം വിലയിരുത്തുന്നത് തുടരുക തുടർന്ന് അവസാനത്തിൽ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമായും വികസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ കോഴ്സിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിക്കുന്നതിന് രണ്ട് സാധ്യമായ സമീപനങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ക്രാഷ് കോഴ്സുകൾ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് സൈറ്റിൽ നിന്ന് സോഫ്റ്റ് സ്കിൽസിനെ ഒരുതരം ബാഹ്യ ഘടകമായി കാണുന്ന പൊതുവായ സമീപനമാണ് അവർ പിന്തുടരുന്നത് തുടർന്ന് ചില ശാരീരിക മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ അത് നിങ്ങളോട് പറയുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങൾ നൽകുന്നു അതിനാൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ എന്റെ സമീപനം അത് ആന്തരിക ഘടകങ്ങളെയും വ്യക്തിത്വത്തിന്റെ മൊത്തത്തിലുള്ള വികാസത്തെയും ലക്ഷ്യമിടുന്നു ശാരീരികവും മാനസികവും വൈകാരികവും മാനസികവും സാംസ്കാരികവും ആത്മീയവുമായ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന മാറ്റങ്ങളെ ഇത് കൈകാര്യം ചെയ്യും വാസ്തവത്തിൽ വൈകാരിക ബുദ്ധിയും ആത്മീയ ബുദ്ധിയും യഥാർത്ഥ ബുദ്ധിശക്തിയേക്കാൾ വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കും ഇപ്പോൾ കോഴ്സ് രണ്ട് രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആദ്യ രൂപം വ്യക്തിപരവും തൊഴിൽപരവുമായ കഴിവുകളെക്കുറിച്ചുള്ള സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ മറ്റൊരു കോഴ്സ് ഉണ്ടാകും ഈ മൊഡ്യൂളുകൾ പൂർത്തിയായ ശേഷം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള കോഴ്സ് ഉണ്ടാകുന്നതായിരിക്കും അത് വ്യക്തിപരവും മാനേജ്മെന്റുമായ കഴിവുകൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യും ഇപ്പോൾ കോഴ്സിന് 8 ആഴ്ചകളുണ്ടാകും 6 മൊഡ്യൂളുകളുണ്ട് ആഴ്ചയിൽ 25 മിനിറ്റ് മൊത്തം 48 മൊഡ്യൂളുകളുണ്ട് ഏകദേശം 20 മണിക്കൂർ അതിനാൽ 20 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് നേടുമെന്നത് ഒരു അത്ഭുതകരമായ നേട്ടമാണെന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും കോഴ്സ് വ്യക്തിപരമായും പ്രൊഫഷണൽ തലത്തിലും തിരിക്കാം സ്വയം വിലയിരുത്തലിൽ നിന്ന് ആരംഭിച്ച് തുടർന്ന് ധാരണകൾ മനസിലാക്കുക നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ ശ്രമിക്കുക മാനസികാവസ്ഥ നിങ്ങൾക്ക് പ്രചോദനത്തെക്കുറിച്ച് എന്തെങ്കിലും നൽകുന്നു തുടർന്ന് ലക്ഷ്യനിർണ്ണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കരിയർ ആസൂത്രണം പിന്നെ പതുക്കെ ആശയവിനിമയത്തിലേക്ക് നീങ്ങുന്നു ഫലപ്രദമായ ആശയവിനിമയം സജീവമായ കേൾവി അനുനയിപ്പിക്കുന്ന സംസാരം അവതരണ കഴിവുകൾ പിന്നെ പിന്നീട് മീറ്റിംഗുകൾ നടത്തുന്നതിനെക്കുറിച്ചും തുടർന്ന് ഇന്റർനെറ്റിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ അതായത് നെറ്റിക്വെറ്റ് അവസാനം ഞാൻ ശരീരഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് ഗ്രൂപ്പ് ചർച്ചകളും അഭിമുഖവും പൊതുവേ നിങ്ങൾ വ്യക്തിപരവും വ്യക്തിപരവുമായ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ആസൂത്രണമാണെന്ന് ഞാൻ പറയുമ്പോൾ ആദ്യത്തെ യഥാർത്ഥ മൊഡ്യൂളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഞാൻ മറ്റൊരു പാറ്റേൺ പിന്തുടരുകയായിരിക്കാം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ആശയം നൽകുന്നതിന് മാത്രമാണ് പക്ഷേ ഞാൻ നിങ്ങളെ വീണ്ടും കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വയം കണ്ടെത്തലിന്റെ യാത്ര ആരംഭിക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ ഈ മൊഡ്യൂൾ ആദ്യ മൊഡ്യൂൾ അവസാനിപ്പിക്കുന്നു കൂടാതെ നിങ്ങൾക്കറിയാവുന്നതുപോലെ സ്വയം കണ്ടെത്തലിന്റെ പ്രണയം അനന്തമായ ഒരു പ്രക്രിയയാണ് ഈ കോഴ്സ് ചെയ്യുന്ന ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സ്വയം കണ്ടെത്തലും ഈ പ്രക്രിയയിൽ സമ്പൂർണ്ണ വിജയവും ഞാൻ ആശംസിക്കുന്നു ഇത് കണ്ടതിന് നന്ദി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം